സെർച്ച് ട്രീ എന്ന മറ്റൊരു ഡാറ്റാ ഘടന ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നു സെർച്ച് ട്രീ പ്രചോദിപ്പിക്കുന്നതിന് നമുക്ക് ഇനിപ്പറയുന്ന ഉദാഹരണം പരിഗണിക്കാം അതിനാൽ നിങ്ങൾ ഒരു എയർ ട്രാഫിക് കൺട്രോളറാണെന്നും ഒരൊറ്റ റൺവേയിലേക്കുള്ള പ്രവേശനം നിങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നും കരുതുക ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും വേണം അതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് പ്രതീക്ഷിക്കുന്ന വരവ് പുറപ്പെടൽ സമയം എന്നിവയെക്കുറിച്ച് എയർ ക്രാഫ്റ്റിൽ നിന്ന് അഭ്യർത്ഥന ലഭിക്കുന്നു ഈ അഭ്യർത്ഥന ക്രമരഹിതമായ സമയത്ത് വരുന്നു അതിനാൽ അവ യഥാർത്ഥ സംഭവത്തിന്റെ സമയക്രമത്തിൽ വരുന്നതല്ല ആദ്യം ചെന്നൈയിൽ 1623 ന് ലാൻഡിംഗിനായി ഒരു അഭ്യർത്ഥന ലഭിച്ചേക്കാം പിന്നീട് 1612 ന് ടേക്ക്ഓഫിനുള്ള അഭ്യർത്ഥന ലഭിച്ചേക്കാം തുടർന്ന് 1655 ന് ഞങ്ങൾക്ക് മറ്റൊരു എത്തിച്ചേരൽ വിവരം ലഭിച്ചേക്കാം തുടർന്ന് 1618 ന് മുമ്പത്തെ മറ്റ് എത്തിച്ചേരൽ വിവരങ്ങൾ കൺട്രോൾ ടവറുമായുള്ള തന്ത്രം പിന്തുടരേണ്ടതാണ് ആദ്യകാല ഉപയോഗ സമയം ഉപയോഗിച്ച് ഫ്ലൈറ്റിന് മുൻഗണന നൽകുക എന്നതാണ് ഇതൊരു മുൻഗണനാ ക്യൂ ആണ് ഓരോ അഭ്യർത്ഥനയും ക്യൂവിലേക്ക് പോകുന്നു പക്ഷേ അത് പ്രതീക്ഷിക്കുന്ന സമയത്തെ ആശ്രയിച്ച് അതിന് മുൻഗണനയുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ഹീപ് പ്രാതിനിധ്യം നൽകാം നിങ്ങൾ 6 അഭ്യർത്ഥനകൾ അവർ വരുന്ന ക്രമത്തിൽ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അവയെ മിനി ഹീപ്സിലേക് തിരുകുകയാണെങ്കിൽ വലതുവശത്ത് കാണുന്ന മിനി ഹീപ് നമുക്ക് ലഭിക്കും അതിനാൽ ഇതിൽ 1612 ഈ 6 ൽ ആദ്യകാല സംഭവമായതിനാൽ അത് യാന്ത്രികമായി റൂട്ടിലേക്ക് ഒഴുകും അതിനാൽ ഇത് ഞങ്ങൾക്ക് ലഭ്യമാകും അടുത്തത് പ്രക്രിയയിലേക്ക് പോയി തുടർന്ന് ആ ഇവന്റിന് 2 മിനിറ്റ് മുമ്പ് സംഭവിച്ചേക്കാം പറന്നുയരാൻ ക്ലിയറൻസ് നൽകുന്ന ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് സിഗ്നൽ അയക്കാം പറ്റും ഇതിന് ഞങ്ങൾക്ക് ഒരു അധിക നിബന്ധനയുണ്ടെന്ന് കരുതുക ആദ്യകാല സംഭവത്തിന് മുൻഗണന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമല്ല റൺവേയിൽ കൂട്ടിയിടി ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വിമാനങ്ങളുടെ കുറഞ്ഞ വേർതിരിക്കൽ ഏർപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ റൺവേയിലേക്ക് പ്രവേശിക്കുന്ന 2 വിമാനങ്ങൾ കുറഞ്ഞത് 3 മിനിറ്റ് അകലത്തിലായിരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ 1653 1655 എന്നീ രണ്ട് ഇവന്റുകളിലൂടെ നിയമം ലംഘിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ തിരുകുമ്പോൾ അല്ലെങ്കിൽ 1655 എന്ന അഭ്യർത്ഥന 1653 ന് ശേഷം വന്നതാണെന്ന് കരുതുക ഈ ഘട്ടത്തിൽ നിലവിലുള്ള എല്ലാ ബെൻഡിംഗ് അഭ്യർത്ഥനകളിൽ നിന്നും കുറഞ്ഞത് 3 മിനിറ്റെങ്കിലും അകലെയാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ 1655 സാധ്യമല്ലെന്ന് പറഞ്ഞ് പൈലറ്റിന് ഒരു സന്ദേശം അയയ്ക്കണം നിങ്ങൾ നിങ്ങളുടെ ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിംഗ് 16 ലേക്ക് മാറ്റണം 56 അല്ലെങ്കിൽ പിന്നീട് നിർഭാഗ്യവശാൽ ഹീപ്പ് ഡാറ്റ ഘടനയിൽ ഇത് ചെയ്യാൻ എളുപ്പമുള്ള മാർഗമില്ല അതിനാൽ ഹീപ്സിലേക് 1655 ചേർക്കുമ്പോൾ അത് 3 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അവയിലേതെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഹീപ്സിലെ എല്ലാ മൂലകങ്ങൾക്കും എതിരെ ഞങ്ങൾ അത് സ്കാൻ ചെയ്യണം അതിനാൽ ഇത് ഒരു ലീനിയർ സ്കാൻ ആയിരിക്കും അതിനാൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ലോഗരിഥമിക് ഒരു ഹീപ്സിൽ തിരുകുകയും ഇല്ലാതാക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് 3 മിനിറ്റിനുള്ളിൽ ഹീപ്സിലെ മൂലകങ്ങളിലേക്ക് നീങ്ങുന്ന ഈ നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ ഓരോ ഇൻസെർട്ടിലും ഞങ്ങൾ ഒരു അധിക രേഖീയ സമയ ചെലവ് ചേർക്കും തുടർന്ന് ഇത് ഇത്തരത്തിലുള്ള ഡാറ്റയ്ക്ക് ഒരു ഹീപ് അയോഗ്യമല്ലാതാക്കും ഇത്തരത്തിലുള്ള ആവശ്യകത കണക്കാക്കാനുള്ള ഒരു മാർഗം പ്രീഡിസെസാർ സക്സസാർ പരിശോധിക്കാൻ കഴിയുക എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതൊരു മൂല്യത്തിനും നമ്മുടെ പക്കലുള്ള മൂല്യനിർണ്ണയ ലിസ്റ്റ് നൽകിയാൽ നമുക്ക് ഏറ്റവും അടുത്തത് ഒരു ചെറിയ മൂല്യവും അടുത്ത സക്സസാർ ഏറ്റവും അടുത്തുള്ള വലിയ മൂല്യവും കണക്കിലെടുക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ 1618 നോക്കുകയാണെങ്കിൽ അടുത്ത ചെറിയ മൂല്യം ഇവിടെയുണ്ട് അതിനാൽ ഇത് മുൻഗാമിയായ 1612 ആണ് അടുത്ത വലിയ മൂല്യം ഇവിടെയുണ്ട് അതിനാൽ ഇതാണ് സക്സസാർ പ്രീഡിസെസാർ സക്സസാർ തമ്മിലുള്ള ട്രീ ഘടനയുടെ അടിസ്ഥാനത്തിൽ ഹീപ്സിനുള്ളിൽ നല്ല ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് നിങ്ങൾ മറ്റൊരു മൂല്യം നോക്കുകയാണെങ്കിൽ 1653 അപ്പോൾ പ്രീഡിസെസാർ ട്രീയുടെ മറ്റൊരു ബ്രാഞ്ചിലും സക്സസാർ ഒരേ ബ്രാഞ്ചിലും കിടക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തും അതിനാൽ ഹീപ്സിന്റെയും പ്രീഡിസസുരേടെയും ട്രീ ഘടനയും നമുക്ക് ആവശ്യമായ സക്സസാർ തമ്മിലുള്ള ബന്ധവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല എന്നിരുന്നാലും പ്രീഡിസസുരേടെയും സാക്സസറുടെയും നമുക്ക് കണക്കാക്കാനാകുമോ എന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അപ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കാരണം പ്രിഡിസസറുടെയോ സാക്സസുരടെയോ നോക്കിയ ശേഷം 3 മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ അഭ്യർത്ഥന പിൻവലിക്കില്ലെന്ന് നമുക്ക് ആ വിമാനത്തിലേക്ക് പരിഹരിക്കാനും മുന്നറിയിപ്പ് നൽകാനും സിഗ്നൽ നൽകാനും കഴിയും നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നിലനിർത്തണമെങ്കിൽ ഞങ്ങൾ ഇതുവരെ കണ്ട വ്യത്യസ്ത ഡാറ്റാ ഘടനകൾ നോക്കാം അതിനാൽ നമുക്ക് അടുക്കിയിട്ടില്ലാത്ത അറേ അടുക്കിയിരിക്കുന്ന അറേ മിനി ഹീപ് എന്നിവയുണ്ട് ഇപ്പോൾ ഈ പ്രത്യേക ഘടനയിൽ ഞങ്ങൾ നേരിട്ട് ഒരു ഡിലീറ്റ് മിനോ ഡിലീറ്റ് മാക്സോ നോക്കാൻ പോകുന്നില്ല പക്ഷേ രണ്ട് വേറിട്ട പ്രവർത്തനങ്ങൾ ഒന്ന് മിനിമം മാക്സിമം എന്നിവ പരിശോധിക്കുന്നു മറ്റൊന്ന് ഒരു ഘടകം ഏകപക്ഷീയമായി ഇല്ലാതാക്കുന്നു അതിനാൽ മീനിനും മാക്സിനും പോകുന്നതുവരെ മീനിനും മാക്സിനും മികച്ച ഡാറ്റാ ഘടന അടുക്കിയിരിക്കുന്നത് വ്യക്തമാണ് കാരണം ഈ മൂല്യങ്ങൾ അറേയുടെ അങ്ങേയറ്റത്താണ് ഏറ്റവും മോശമായത് ഒരു തരംതിരിക്കാത്ത ശ്രേണിയാണ് കാരണം അത് എവിടെയും ആയിരിക്കും രണ്ടും രേഖീയ സമയം നോക്കും തുടർന്ന് നമുക്ക് ഒരു മിൻ ഹീപ്സ്സാണോ അതോ മാക്സ് ഹീപ്സ്സാണോ എന്നതിനെ ആശ്രയിച്ച് അവയിലൊന്ന് നല്ലതാണ് മറ്റൊന്ന് മോശമാണ് അതിനാൽ ഒരു മിൻ ഹീപ്സിൽ നമുക്ക് റൂട്ട് ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞത് കണ്ടെത്താൻ കഴിയും പരമാവധി എവിടെയും ആകാം അതുപോലെ തന്നെ പരമാവധി ഹീപ്സിൽ പരമാവധി റൂട്ടിലും കുറഞ്ഞത് എവിടെയും ആകാം നിങ്ങൾ അടുത്ത സെറ്റ് ഓപ്പറേഷനുകൾ നോക്കുകയാണെങ്കിൽ ഇത് ഇൻസെർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു തരംതിരിക്കാത്ത അറേ ചേർക്കുന്നതിന് നല്ലതാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് അത് അവസാനം ടിക്ക് ചെയ്യാം ഇല്ലാതാക്കാൻ ഞങ്ങൾ അറേയിലൂടെ പോയി മൂല്യം നോക്കി അത് നീക്കംചെയ്യണം അതിനാൽ ഇതിന് ലീനിയർ സമയം എടുക്കും അടുക്കിയിരിക്കുന്ന ശ്രേണിയിൽ രണ്ടും സ്ലോ ആകും കാരണം നമ്മൾ ഒന്നുകിൽ ശരിയായ സ്ഥാനത്ത് ചേർക്കേണ്ടതുണ്ട് ഉൾപ്പെടുത്തൽ തരം പോലെ അല്ലെങ്കിൽ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ രേഖീയ സമയം എടുക്കുന്ന അറേ കംപ്രസ് ചെയ്യണം ഇപ്പോൾ ഒരു മിൻ ഹീപ്സിൽ ചേർക്കുന്നത് ലോഗരിഥമിക് ആണെന്ന് നമുക്കറിയാം ഇത് മിൻ ഡിലീറ്റ് ചെയുന്നില്ലെങ്കിലും ഡിലീറ്റ് ലോഗരിഥമിക് ആണ് അതിനാൽ ഇത് രണ്ട് ഘട്ടങ്ങളായി വിഭജിക്കപ്പെടാം അതിനാൽ നിലവിലെ ഏറ്റവും കുറഞ്ഞ മൊത്തത്തിലുള്ള മൈനസ് 1 ലേക്ക് അപ്ഡേറ്റുചെയ്ത് ഇല്ലാതാക്കുക അതിനാൽ നിങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നിലവിലെ മൂല്യം നിങ്ങൾക്ക് എടുക്കാം അത് മൂല്യമായി പുനസജ്ജീകരിക്കുക അങ്ങനെ അത് ഏറ്റവും കുറഞ്ഞതായിത്തീരും ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ചെറിയ മൂല്യത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് റൂട്ട് വരെ പ്രചരിപ്പിക്കും തുടർന്ന് നിങ്ങൾ മിൻ ഡിലീറ്റ് ചെയ്താൽ ആ മൂല്യം അപ്രത്യക്ഷമാകും അതിനാൽ ഞങ്ങൾ ലോഗ് n രണ്ട് ഘട്ടങ്ങളിലായി ഫലപ്രദമായി ഓരോന്നും ഇല്ലാതാക്കും അതിനാൽ മൊത്തത്തിൽ ഇത് ലോഗ് n ആണ് ഇപ്പോൾ ഞങ്ങൾ പ്രീഡിസസുരേടെയും സാക്സസറുടെയും അടുക്കിയിട്ടുള്ള പട്ടികയിൽ ക്രമീകരിച്ചവയാണ് അതിനാൽ ഇവ രണ്ടും സ്ഥിരമായ പ്രവർത്തനങ്ങളാണ് മറുവശത്ത് ഒരു തരംതിരിക്കാത്ത പട്ടികയിൽ നമ്മൾ മുഴുവൻ ശ്രേണിയും നോക്കേണ്ടതുണ്ട് ഞങ്ങൾ ഒരു ഹീപ്സിൽ പറഞ്ഞു സ്കാൻ ചെയ്യണം കാരണം അടുത്തുള്ള മൂലകങ്ങൾ ഹീപ്സിൽ സൂക്ഷിക്കുന്ന പ്രത്യേക ക്രമം ഒന്നുമില്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും ബൈനറി സെർച്ച് ട്രീസ് നമ്മൾ ഒരു ബൈനറി സെർച്ച് ട്രീ ഒരു നല്ല ഘടനയോടെ പരിപാലിച്ചാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ലോഗരിഥമിക് ആണെന്ന് വാദിക്കാൻ പോകുന്നു കൂടാതെ ഞങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രവർത്തനം നോക്കും അത് ഒരു മൂല്യത്തിനായി തിരയുന്നു ഇതും ലോഗരിഥമിക് ആയിരിക്കും അതിനാൽ ഒരു ബൈനറി സെർച്ച് ട്രീയിലെ ഈ 7 പ്രവർത്തനങ്ങളും നമുക്ക് ഒരേസമയം ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും അതിനാൽ ഒരു ബൈനറി ട്രീ ഒരു റൂട്ട് ഉള്ള ഒരു ട്രീ മാത്രമാണ് അതിൽ ഓരോ നോഡിലും 1 2 അല്ലെങ്കിൽ 3 ചിൽഡ്രെൻസുണ്ട് ഹീപ് വളരെ സവിശേഷമായ ഒരു ബൈനറി ട്രീ നൽകുന്നു അത് ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇടത്തേക്ക് വലത്തേക്ക് നിറച്ചു പക്ഷേ പൊതുവേ ഒരു ബൈനറി ട്രീന് യാതൊരു നിയന്ത്രണവുമില്ല അതിനാൽ ഓരോ നോഡിലും ഞങ്ങൾക്ക് മൂല്യങ്ങളുണ്ട് പാരന്റ്സിൽ നിന്ന് ചിൽഡ്രൻസിലെക് പോകാൻ നമുക്ക് വഴിയില്ലെന്ന് മാത്രമല്ല ചിൽഡ്രനിൽ നിന്ന് പാരന്റ്സിലേക് പോകാനുള്ള വഴിയുണ്ടെന്നും ഞങ്ങൾ അനുമാനിക്കും നമ്മൾ അനുമാനിക്കാൻ പോകുന്ന എല്ലാ നോഡുകളിലേക്കും പാരന്റ് ലെഫ്റ് ചൈൽഡ് റൈറ്റ് ചൈൽഡ് എന്നിവയുമായി ഒരു ലിങ്ക് ഉണ്ടാകും തീർച്ചയായും ഈ ലിങ്കുകൾ കാണാതായേക്കാം പക്ഷേ അവ ഉണ്ടെങ്കിൽ അവ മൂന്നും അതിനാൽ നമുക്ക് ട്രീ മുകളിലേക്കും താഴെയുള്ള രണ്ട് നോഡുകളിലേക്കും അല്ലെങ്കിൽ ട്രീയുടെ താഴേക്കും ചൂണ്ടിക്കാണിക്കാം പദങ്ങളുടെ അടിസ്ഥാനത്തിൽ റൂട്ട് ഏറ്റവും മുകളിലുള്ള നോഡാണ് അതിന് പരേന്ടസില ഇലയ്ക്ക് ചിൽഡ്രൻസില്ലാത്ത ഏത് നോഡാണ് ഏത് ഘട്ടത്തിലും നിങ്ങൾ ഒരു നോഡ് നോക്കുകയാണെങ്കിൽ അത് ഒരു പരേന്റാണ് അത് ലെഫ്റ് ചൈൽഡ് അത് റൈറ്റ് ചൈൽഡ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ബൈനറി ട്രീ എടുക്കുകയും മൂല്യങ്ങളുടെ ഒരു നിയന്ത്രണം ഞങ്ങൾ കൂടുതൽ ചുമത്തുകയും ചെയ്യുന്നു അതിനാൽ ഒരു ഹീപ്സിലെന്നപോലെ നമ്മൾ ആദ്യം ഒരു ഘടനാപരമായ അവസ്ഥയിൽ ഒരു ട്രീയിൽ മുകളിൽ നിന്ന് താഴേക്ക് വലത്തോട്ട് നിറഞ്ഞിരിക്കുന്നു തുടർന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു ഹീപ് പ്രോപ്പർട്ടി ഉണ്ട് അത് മാക്സ് ഹീപ്സോ മിൻ ഹീപ്സോ ആണ് ഒന്നുകിൽ ഒരു നോഡ് അതിനെക്കാൾ വലുതാണ് 2 ചിൽഡ്രൻസാണ് അല്ലെങ്കിൽ അത് 2 ചിൽഡ്രൻസ് ചെറുതാണ് അതിനാൽ അവർക്ക് ഘടനയിൽ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവ മൂല്യത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അതിനാൽ അവർ പരസ്പരം ഈ ബഹുമാനത്തോടെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ബൈനറി ട്രീക്ക് ഒരു നിശ്ചിത രീതിയിൽ മൂല്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഏകപക്ഷീയ ഘടന ഉണ്ടായിരിക്കാം അതിനാൽ v മൂല്യം ഉള്ള ഓരോ നോഡിനും v ന് താഴെയുള്ള എല്ലാ നോഡുകളും v നേക്കാൾ ചെറുത് ലെഫ്റ് സബ് ട്രീ v നേക്കാൾ വലുപ്പമുള്ള എല്ലാ മൂല്യങ്ങളും അവകാശങ്ങളുടെ സബ് ട്രീ ഉണ്ട് തനിപ്പകർപ്പ് മൂല്യങ്ങളൊന്നുമില്ലെന്ന് ഞങ്ങൾ സാധാരണയായി അനുമാനിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു റൂട്ട് നോഡ് 5 നോക്കുകയാണെങ്കിൽ 5 ലെ ലെഫ്റ് സബ് ട്രീ 1 മുതൽ 4 വരെയുള്ള മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അവ ഈ ട്രീയിലെ 5 നോഡുകളേക്കാൾ ചെറുതാണ് റൈറ്റ് സബ് ട്രീ 8 ഉം 9 ഉം അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇത് ട്രീ ലുടനീളം ആവർത്തിച്ച് സംതൃപ്തമായ പ്രോപ്പർട്ടി ആണ് ഉദാഹരണത്തിന് നിങ്ങൾ നോഡ് 2 നോക്കുകയാണെങ്കിൽ അത് ലെഫ്റ് ചൈൽഡ് ആണ് ലെഫ്റ് സബ് ട്രീ ഒരു ഒറ്റ നോഡ് 1 ആണ് അത് 2 ൽ റൂട്ടേഡ് ട്രീയേക്കാൾ ചെറുതാണ് അത് റൈറ്റ് സബ് ട്രീ മൂല്യം 4 ആണ് ഇത് റൈറ്റ് ആണ് ഇത് 2 നേക്കാൾ വലുതാണ് ഈ സബ് ട്രീ 2 നെക്കാൾ വലുതാണ് അതുപോലെ നിങ്ങൾ ഇതിൽ 8 നോക്കിയാൽ 8 ൽ ആരംഭിക്കുന്ന സബ് ട്രീ 8 അല്ലാതെ ഒരു മൂല്യം മാത്രമാണ് 9 ന്റെ മൂല്യം അത് കാരണം ഞങ്ങൾ വലത് സബ് ട്രീ പോകുന്നു ലെഫ്റ് സബ് ട്രീ ശൂന്യമാണ് അതിനാൽ ഹീപ്സിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇത്തരത്തിലുള്ള വിടവുകൾ ഉണ്ടാകാം നമുക്ക് ഒരു വിടവ് ഉണ്ടാകാം പക്ഷേ ഈ ഏകീകൃത പ്രോപ്പർട്ടി ഞങ്ങളുടെ പക്കലുള്ള ഏത് നോഡിലും നോഡിനേക്കാൾ ചെറിയ എല്ലാ മൂല്യവും ലെഫ്റ് സൈഡിലും എല്ലാ മൂല്യങ്ങളും വലുതാണ് റൈറ്റ് സൈഡ് ചുറ്റും സാധാരണയായി ഞങ്ങൾ ഇത് ഒരു ലിങ്ക് ഘടനയായി നടപ്പിലാക്കും അവിടെ ഓരോ നോഡിലും മൂല്യം അല്ലാതെ 3 ഫീൽഡുകൾ ഉണ്ട് അതിനാൽ ഞങ്ങൾ പറെന്റിൽ ചൂണ്ടിക്കാണിക്കുകയും ലെഫ്റ് ചൈൽഡ് ചൂണ്ടിക്കാണിക്കുകയും റൈറ്റ് ചൈൽഡിലേക് ചൂണ്ടുകയും ചെയ്യുന്നു ഒരു ബൈനറി സെർച്ച് ട്രീ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനാകുന്ന ആദ്യ കാര്യം അത് ക്രമീകരിച്ച ക്രമത്തിൽ മൂല്യങ്ങൾ പട്ടികപ്പെടുത്തുക എന്നതാണ് ഇതിനെ ഒരു ഓർഡർ ട്രാവർസൽ എന്ന് വിളിക്കുന്നു അതിനാൽ ട്രാവർസൽ ആവർത്തന യാത്രയാണ് അത് ട്രീയിലൂടെ നടക്കാനുള്ള ഒരു മാർഗമാണ് അതിനാൽ ഞങ്ങൾ ആദ്യം ഇടത് സബ് ട്രീ യിലൂടെയും തുടർന്ന് നിലവിലെ നോഡിലൂടെയും തുടർന്ന് റൈറ്റ് സബ് ട്രീ യിലൂടെയും നടക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ ഒരു ഓർഡർ ട്രാവർസൽ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ റൂട്ടിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് ആദ്യം ഞങ്ങൾ ലെഫ്റ് ട്രീയിൽ നടക്കണം അതിനാൽ ഞങ്ങൾ ലെഫ്റ് ചൈൽഡ് അടുത്തേക്ക് നടക്കും പിന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾ ട്രീയിലെ ലെഫ്റ് വശത്തേക് നടക്കണം അതിനാൽ നിങ്ങൾ ലെഫ്റ് ചൈൽഡ് ൻറെ അടുത്തേക്ക് നടക്കുക ഇപ്പോൾ അവശേഷിക്കുന്ന ലെഫ്റ് ചൈൽഡ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ 1 പ്രിന്റ് ചെയ്യും ബാക്കപ്പ് നീക്കുക കാരണം റൈറ്റ് ചൈൽഡ് ഇല്ല ഇപ്പോൾ ഞങ്ങൾ 2 പ്രിന്റ് ചെയ്യുന്നു കൂടാതെ റൈറ്റ് സബ് ട്രീലേക്ക് ഇറങ്ങുക ഇപ്പോൾ വീണ്ടും 4 ന് ലെഫ്റ് അല്ലെങ്കിൽ വലത് സബ് ട്രീ ഇല്ല അതിനാൽ പ്രിന്റ്ഔട്ട് ചെയ്ത് ബാക്കപ്പ് ചെയ്യും ഞങ്ങൾ ഇതിനകം പൂർത്തിയാക്കിയതിനാൽ ഞങ്ങൾ റൂട്ട് അവസാനിപ്പിക്കും നമ്മൾ 5 ട്രീ പ്രിന്റ് ചെയ്യുമോ സബ് ട്രീലേക്ക് പിന്നെ ലെഫ്റ് സബ് ട്രീ ഇല്ലാത്തതിനാൽ 8 പ്രിന്റ് ചെയ്ത് റൈറ്റ് സബ് ട്രീലേക്ക് പോകും ഒടുവിൽ 9 പ്രിന്റ് ചെയ്യും ഈ പ്രോപ്പർട്ടി കാരണം കാണാൻ എളുപ്പമാണ് ഇടതുവശത്തുള്ളതെല്ലാം ആ മൂല്യത്തേക്കാൾ ചെറുതാണെന്നും വലതുവശത്തുള്ളതെല്ലാം മൂല്യത്തേക്കാൾ വലുതാണെന്നും നമുക്കറിയാം അതിനാൽ ഇത് ഒരു ആവർത്തനം പോലെയാണ് ഒരു തരത്തിൽ പെട്ടെന്നുള്ള വിഭജനത്തിന്റെ വിഭജനത്തിന് ഇത് വളരെ സാമ്യമുള്ളതാണ് അതിനാൽ ചെറിയ മൂല്യങ്ങളുടെ മൂല്യങ്ങൾ ഇടതുവശത്തായി ഞങ്ങൾ ഇതിനകം വിഭജിച്ചിട്ടുണ്ട് അതിനാൽ വലതുവശത്ത് വലിയ മൂല്യങ്ങളുണ്ട് നിങ്ങൾ ഈ പാർട്ടീഷനിംഗ് ആവർത്തിച്ച് പിന്തുടരുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും വ്യക്തമായും ക്രമീകരിച്ച ശ്രേണിയിൽ മൂല്യങ്ങൾ നേടുക ഒരു ബൈനറി സെർച്ച് ട്രീയിലെ ഒരു മൂല്യം ഇപ്പോൾ തിരയുന്നത് ബൈനറി സെർച്ച് പോലെയാണ് ഓർക്കുക ബൈനറി സെർച്ച്ൽ നിങ്ങൾക്ക് ഒരു അറേ ഉണ്ട് തുടർന്ന് ഞങ്ങൾ മിഡ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് നിങ്ങൾ അത് കണ്ടെത്തിയാൽ അതെ എന്ന് പറയും അല്ലാത്തപക്ഷം അത് ചെറുതാണെങ്കിൽ നിങ്ങൾ ഇടത്തോട്ടും പോകുക അല്ലെങ്കിൽ വലതുവശത്ത് നോക്കുമ്പോൾ ഒന്ന് വലുതാണ് അതിനാൽ ഞങ്ങൾക്ക് വളരെ സമാനമായ ഒരു കാര്യമുണ്ട് അതിനാൽ ഒരു ട്രീയിൽ V മൂല്യം കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ട്രീ ശൂന്യമാണെങ്കിൽ അത് ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ ഞങ്ങൾ തെറ്റായി മടങ്ങുന്നു നിലവിലെ നോഡിന് മൂല്യമുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥാപിക്കുകയും 2 തിരികെ നൽകുകയും ചെയ്തു മറുവശത്ത് നിങ്ങൾ അത് സ്ഥാപിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ട്രീ ഉള്ളതിനാൽ മൂല്യം നിലവിലെ മൂല്യത്തേക്കാൾ ചെറുതാണോ എന്ന് നോക്കാം അത് ചെറുതാണ് ഞങ്ങൾ ഇടത് വശത്ത് സെർച്ച് ചെയുകയും അവിടെ കണ്ടെത്തിയതെന്തും തിരികെ നൽകുകയും ചെയ്യുന്നതിനേക്കാൾ ശരിയെന്ന് ഞങ്ങൾ പറയുന്നതിനേക്കാൾ അത് ട്രീയോട് പറയുന്നതൊന്നും അവിടെ കാണുന്നില്ല അല്ലാത്തപക്ഷം ഞങ്ങൾ ആവർത്തിച്ച് വലതുവശത്ത് സെർച്ച് ചെയുന്നു അതിനാൽ ഇത് വളരെ സമാനമായ ബൈനറി സെർച്ച് ആണ് ഇപ്പോൾ ബൈനറി സെർച്ച് പോലെ നിങ്ങൾക്ക് ഇതിന്റെ ആവർത്തന പതിപ്പ് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ റൂട്ടിൽ ആരംഭിക്കുന്നത് നിങ്ങൾ പാതയിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ മാത്രം നിലവിലെ മൂല്യങ്ങൾ ശരിയാണ് അല്ലാത്തപക്ഷം നിങ്ങൾ ഇടതുവശത്തേക്ക് നടന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ റൂട്ട് ആരംഭിക്കുകയാണോ നിങ്ങൾക്ക് കണ്ടെത്താനാകുന്ന മൂല്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു പാത നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ നോഡിലെത്തുമ്പോൾ നിങ്ങൾ അതെ എന്ന് പറയുന്നു മറുവശത്ത് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലെത്തിയാൽ നിങ്ങൾക്ക് നോഡുകൾ തീർന്നാൽ നിങ്ങൾ താഴേക്ക് വന്നാൽ പിന്നെ വിപുലീകരണമില്ലെന്ന് പറയുക എവിടെ എനിക്ക് അത് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഞങ്ങളും സുരക്ഷിതരാകും അതിനാൽ ഇത് കണ്ടെത്തലിന്റെ ലളിതമായ ആവർത്തന പതിപ്പാണ് അടുത്ത രണ്ട് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങൾ ഏറ്റവും കുറഞ്ഞതും കൂടിയതും കണ്ടെത്തുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ട്രീയിലെ ഏറ്റവും കുറഞ്ഞ നോഡ് ഇടതുഭാഗത്താണ് ഇതാണ് നിങ്ങൾ പോയാൽ എത്തുന്ന നോഡ് നിങ്ങൾക്ക് ഇടത് എഡ്ജസ് മാത്രം പിന്തുടരാനാകും അതിനാൽ അതിനാൽ ഈ സാഹചര്യത്തിൽ 5 ൽ നിന്ന് ഇടത്തേക്ക് ഞാൻ 3 ലേക്ക് പോകുന്നു 3 മുതൽ 3 വരെ ഞാൻ ഇടത്തേക്ക് പോയാൽ ഞാൻ 1 ലേക്ക് പോകുന്നു അതിനുശേഷം എനിക്ക് ഇടത്തേക്ക് പോകാൻ കഴിയില്ല അതിന് താഴെയായി വലതുവശത്ത് എന്തെങ്കിലും ഉണ്ട് പക്ഷേ ഒരിക്കലും കുറവുള്ളതല്ല ഇടതുവശത്തേക്ക് പോകുക എന്നത് ട്രീയിലെ ഏറ്റവും കുറഞ്ഞ ഘടകമായിരിക്കണം കാരണം എന്തിനേക്കാളും ചെറുതായ എല്ലാം 2 ഇടത് വശത്തായിരിക്കും അതിനാൽ എനിക്ക് ഇടത്തേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒന്നിനേക്കാൾ ചെറുതായി ഒന്നുമില്ല അതിനാൽ ട്രീയുടെ ഏറ്റവും ഇടത് മൂല്യം ഏറ്റവും കുറഞ്ഞതാകാനുള്ള കാരണം ഇതാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ ആവർത്തിക്കാനാകും ഇപ്പോൾ ട്രീ ശൂന്യമല്ലെന്ന് കരുതി ഇത് സാധാരണയായി ഉപയോഗിക്കും ഇത് കുറച്ച് കോഡിംഗ് ലളിതമാക്കുന്നു അതിനാൽ ട്രീ ശൂന്യമല്ലെന്ന് കരുതുകയാണെങ്കിൽ ഞങ്ങൾ പ്രത്യേക വ്യവസ്ഥകളൊന്നും പരിശോധിക്കേണ്ടതില്ല അത് ശൂന്യമല്ലാത്തപ്പോൾ ഒരു എറർ നൽകി അതിനാൽ ഇത് ശൂന്യമല്ലെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽ നമുക്ക് ഇടത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും അതിനാൽ ശേഷിക്കുന്ന ടി ഡോട്ട് ശൂന്യമാണെങ്കിൽ ഇത് ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് അല്ലാത്തപക്ഷം മടങ്ങുന്നു ഇടതുവശത്തെ ഏറ്റവും കുറഞ്ഞ മൂല്യത്തിനായി ഞങ്ങൾ ആവർത്തിച്ച് സെർച്ച് ചെയ്യും വീണ്ടും വളരെ ലളിതമായ ആവർത്തന പതിപ്പ് ഉണ്ട് ഞങ്ങൾ നിലവിലെ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും കഴിയുന്നിടത്തോളം കാലം ഇടത്തേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ ഇല്ലാത്തിടത്തോളം അത് ശൂന്യമായിത്തീരും ഈ പോയിന്റിലെത്തുമ്പോൾ എന്തുകൊണ്ട് ഡോട്ട് ഇടത് ശൂന്യമാണ് ഞങ്ങൾ ഈ ലൂപ്പിനൊപ്പം പുറത്തുവരുന്നു ഈ സമയത്ത് നിങ്ങൾ മൂല്യം തിരികെ നൽകുന്നു അതിനാൽ ഇവിടെ നിന്ന് 5 ടി ഡോട്ട് ലെഫ്റ് 3 അവശേഷിക്കുന്നു ടി ഡോട്ട് ലെഫ്റ് 1 ഉം ടി ഡോട്ട് ലെഫ്റ് ശൂന്യവുമാണ് അതിനാൽ ഈ സമയത്ത് ഞങ്ങൾ നിർത്തുന്നു അതിനാൽ ടി 1 ലേക്ക് ചൂണ്ടുന്നു അതിനാൽ ടി ഡോട്ട് മൂല്യം 1 ആണ് ഇത് റിട്ടേൺ മൂല്യം ആണ് അതിനാൽ നമുക്ക് മിനിമം കണ്ടെത്താനാകും അതിനാൽ സിമെട്രിക് പരമാവധി ട്രീയിലെ ഏറ്റവും ശരിയായ മൂല്യമാണ് നിങ്ങൾ വലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ വലുതായിത്തീരും നിങ്ങൾക്ക് കൂടുതൽ ശരിയായി പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ആ നോഡിനേക്കാൾ വലുതല്ല അതിനാൽ ഇവിടെ 5 മുതൽ നമുക്ക് 7 മുതൽ 9 വരെ പോകാം 9 ആണ് ഏറ്റവും വലിയ മൂല്യം കാരണം അടുത്ത നോഡ് ഏത്ട്രീയിൽ 9 ൽ താഴെയാണെങ്കിലും അത് ഇടതുവശത്തുകൂടിയാണ് അതിനാൽ 9 നേക്കാൾ ചെറുതാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു സിമെട്രിക് റിക്കർസീവ് സൊല്യൂഷൻ മാക്സ്വൽ ഉണ്ട് വലത് ശൂന്യമാണോ എന്ന് ഞങ്ങൾ വലത് പരിശോധിക്കുന്നു തുടർന്ന് വലത് ശൂന്യമല്ലെങ്കിൽ ഞങ്ങൾ പരമാവധി മൂല്യം തിരികെ നൽകുന്നു തുടർന്ന് ഞങ്ങൾ പരമാവധി ആവർത്തിച്ച് സെർച്ച് ചെയുന്നു വീണ്ടും അതിന്റെ ആവർത്തന പതിപ്പ് ഞങ്ങൾ വലതുവശത്ത് ചേസ് പോയിന്റ് പിന്തുടരുന്നു അതിനാൽ ടി ഡോട്ട് റൈറ്റ് ശൂന്യമല്ലാത്തിടത്തോളം കാലം ഞങ്ങൾ ടിയിൽ നിന്ന് ടി ഡോട്ടിലേക്ക് നീങ്ങുന്നു പരമാവധി മൂല്യമുള്ള കൂടുതൽ സമയം ഇവിടെ നീക്കാൻ കഴിയാത്തപ്പോൾ ഞങ്ങൾ ആ മൂല്യം നൽകുന്നു അതിനാൽ ഈ പോയിന്റ് ഞങ്ങൾ ഒരു സെർച്ച് ട്രീ ഏറ്റവും കുറഞ്ഞതും കൂടിയതും കണ്ടെത്തി അതിനാൽ ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പ്രിഡിസെസാർ സക്സസാർ ഉണ്ട് അതിനാൽ നമുക്ക് ആദ്യം സക്സസാർ നോക്കാം അതിനാൽ പട്ടികയിലെ x ന്റെ സക്സസാർ അടുത്ത മൂല്യം x ലിസ്റ്റിന് ശേഷമുള്ള അടുത്ത ഏറ്റവും ചെറിയ മൂല്യം എന്ന് ഓർക്കുക അതിനാൽ ഞങ്ങൾ ഇത് ക്രമീകരിച്ച ക്രമത്തിൽ അച്ചടിക്കുകയാണെങ്കിൽ അത് x ന്റെ വലതുവശത്ത് ദൃശ്യമാകുന്ന മൂല്യമായിരിക്കും ഒരു ട്രീയിലെ ക്രമത്തിൽ ട്രാവൽസൽ ക്രമീകരിച്ച ക്രമത്തിൽ മൂല്യങ്ങൾ അച്ചടിക്കുന്നു അതിനാൽ x ന് ശേഷം ഉടൻ ക്രമത്തിൽ അച്ചടിക്കുന്നത് ഫലപ്രദമാണ് അതിനാൽ ക്രമത്തിൽ പ്രവർത്തിക്കുന്ന വിധത്തിൽ അത് ലെഫ്റ് സബ് ട്രീ പ്രിന്റുചെയ്യുന്നു തുടർന്ന് x പ്രിന്റുചെയ്യുന്നു തുടർന്ന് റൈറ്റ് സബ് ട്രീ പ്രിന്റ് ചെയ്തുവെന്ന് നമുക്കറിയാം അതിനാൽ x ന് ശേഷം ഉടൻ വരുന്ന ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇവിടെ ആദ്യത്തെ മൂല്യമായിരിക്കും അതിനാൽ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും ചെറിയ മൂല്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും കുറഞ്ഞതും ഒരു ട്രീയുടെ ഏറ്റവും കുറഞ്ഞ കണക്ക് എങ്ങനെയെന്ന് നമുക്ക് ഇതിനകം അറിയാം പക്ഷേ ഒരു മൂല്യത്തിന്റെ സക്സസാർ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധ്യതയാകാം ഒരു റൈറ്റ് സബ് ട്രീ ഇല്ലാത്തത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിനാൽ ഒരു മൂല്യത്തിന് റൈറ് സബ് ട്രീ ഇല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന സബ് ട്രീ പരമാവധി ആയിരിക്കണം എന്നതാണ് ആദ്യ നിരീക്ഷണം അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ x മൂല്യം നോക്കുന്നു അതിന് റൈറ് സബ് ട്രീ ഇല്ലാ അതിനാൽ ഇത് ചില സബ് ട്രീയുടെ പരമാവധി ആണ് നമ്മൾ ആദ്യം ഈ സബ് ട്രീ തിരിച്ചറിയണം അതിനാൽ നമ്മൾ എങ്ങനെയാണ് സബ് ട്രീ തിരിച്ചറിയുക ഉണർന്ന് ഈ സബ് ട്രീ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക അതിനാൽ റൈറ് പോയിന്ററുകളുടെ തുടർച്ചയാണ് ഞങ്ങൾ x ൽ എത്തുന്നത് അതിനാൽ ഞങ്ങൾ ആ റൈറ് പോയിന്ററുകൾ പിന്നിലേക്ക് പിന്തുടരുന്നു ഞങ്ങൾ ഒരു ലെഫ്റ് പോയിന്റർ പിന്തുടരുമ്പോൾ ഞങ്ങൾ ഈ സബ് ട്രീയിൽ നിന്ന് പുറത്തുവന്നതായി അറിയാം അതിനാൽ ആ നോഡ് ചുവടെയുള്ള സബ് ട്രീയുടെ റൂട്ട് ആയിരിക്കണം ഇത് ലെഫ്റ് സബ് ട്രീ ആണ് അതിനാൽ അതാണ് അടുത്ത മൂല്യം ഈ മുഴുവൻ ചുവപ്പ് ബ്ലോക്ക് സബ് ട്രീയും പ്രിന്റ് എടുക്കുകയും x ൽ അവസാനിക്കുന്ന ചുരുങ്ങിയ ക്രമം വരുകയും ചെയ്യും ഇതിന് ശേഷം റൂട്ട് പ്രിന്റ് ചെയ്യപ്പെടും ഇത് സക്സസാർ ആയി ലേബലുള്ള ഈ നോഡ് ആണ് അതിനാൽ x ന്റെ വിജയത്തിൽ ഒരു നിയോഗം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നോഡ് അതാണ് ഇതിനുള്ള ഒരു ലളിതമായ പ്സെഡോ കോഡ് ഇതാ അതിനാൽ നോഡ് t യുടെ സക്സസാർ കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ നോഡിന് ഒരു വലത് പോയിന്റർ ഉണ്ടെങ്കിൽ വലത് സബ് ട്രീയുടെ ഏറ്റവും കുറഞ്ഞ മൂല്യം ഞങ്ങൾ തിരികെ നൽകും മറുവശത്ത് അതിന് അവകാശമില്ലെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് പോയി ഭാഗം തിരിയുന്ന ആദ്യ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് വലത്തേക്ക് അതിനാൽ ഞങ്ങൾ t യിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ y എന്ന് വിളിക്കുന്ന പരേന്റാണെന്ന് കണക്കാക്കുന്നു അതിനാൽ ഈ ദിശ റൈറ്റാകുന്നിടത്തോളം ഞങ്ങൾ മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഒരു പാരന്റ് അടുത്തേക്ക് പോകുന്നു ഞങ്ങൾ മുകളിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇവിടെ ഈ ലൂപ്പിൽ സംഭവിക്കുന്നത് അതാണ് ഞങ്ങൾ t യും y ഉം മുകളിലേക്ക് നീങ്ങുന്നു തുടർന്ന് ചില ഘട്ടങ്ങളിൽ നമുക്ക് t ഉം y ഉം ഈ വഴി പോകും അതിനാൽ ഇത് y ഡോട്ട് ലെഫ്റ് ആയിരിക്കും അതിനാൽ ഇത് ഇപ്പോൾ ഈ ഒറിജിനൽ നോഡ് t യുടെ സക്സസാർ ആണ് തുടർന്ന് ഞങ്ങൾ മുകളിലെത്തിയ ഒരു പ്രത്യേക കേസ് ഉണ്ട് ഞങ്ങൾ ഒരിക്കലും വലത്തേക്ക് തിരിയുന്നില്ല അങ്ങനെയാണ് നമ്മൾ ട്രീയിലെ മൊത്തത്തിലുള്ള പരമാവധി മൂല്യത്തിൽ നിന്നാണ് നിങ്ങൾ ആരംഭിച്ചത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നാൽ അതിന് തുടർച്ചയില്ല ഞങ്ങൾ പൂജ്യമായി മടങ്ങും നമുക്ക് ഈ പ്രത്യേക കാര്യം നോക്കാം അതിനാൽ 3 സംഭവങ്ങൾക്ക് റൈറ് സബ് ട്രീ നിലവിലുണ്ട് 4 ഈ ചെറിയ മൂല്യം ഉണ്ട് അതിനാൽ 1 ന്റെ ഏറ്റവും ചെറിയ മൂല്യങ്ങളുടെ വിജയം 2 ആണ് അതിനാൽ 7 ന്റെ സക്സസാർ ഈ സബ് ട്രീയുടെ ഏറ്റവും കുറഞ്ഞ മൂല്യം 8 അതിനാൽ 8 ഒരു സക്സസാർ അല്ലെങ്കിൽ 7 ആണ് അതിനാൽ ഇവയെല്ലാം നിങ്ങൾക്ക് റൈറ് സബ് ട്രീ ഉള്ളതിനാൽ അടിസ്ഥാന കേസിൽ നിന്ന് പുറത്തുവരുന്നു മറുവശത്ത് നിങ്ങൾക്ക് റൈറ് സബ് ട്രീ ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ 2 ആരംഭിച്ചു തുടർന്ന് നിങ്ങൾ വലത്തേക്ക് തിരിയുന്നു 3 തുടർച്ചയായതാ അല്ലെങ്കിൽ 4 ൽ നിന്ന് നിങ്ങൾ വലത്തേക്ക് തിരിയുമ്പോൾ 5 തുടർച്ചയായതാണെന്ന് നിങ്ങൾ കണ്ടെത്തും അതുപോലെ 8 ന് നിങ്ങൾ ഉടൻ വലത്തേക്ക് തിരിയുന്നു അതിനാൽ 9 തുടർച്ചയായി ഒടുവിൽ 9 ന് നിങ്ങൾ വരും നിങ്ങൾക്ക് റഫർ സമയം 2002 കേസ് ഇലാതായ്വരും അതിനാൽ തുടർച്ചയായി ഒന്നുമില്ലെന്ന് 9 പറയും കാരണം ഇത് സാധ്യമായ വലിയ മൂല്യമാണ് പ്രിഡിസസറുടെ സാഹചര്യം സിമെട്രിക്കാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു ലെഫ്റ് സബ് ട്രീ ഉണ്ടെങ്കിൽ പ്രിഡിസെസാർ ആണ് ഇതിൽ പരമാവധി മൂല്യം അതിനാൽ ഞങ്ങൾ ഇടത്തേക്ക് താഴേക്ക് പോകുന്നു തുടർന്ന് ഞങ്ങൾ എല്ലാ വഴികളിലേക്കും വലത്തോട്ട് പോകുന്നു ഞങ്ങൾക്ക് ഒരു ലെഫ്റ് സബ് ട്രീ ഇല്ലെങ്കിൽ ഇതിനർത്ഥം ഇത് ഇതിനകം തന്നെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് എന്നാണ് അതിനാൽ ഇടത് പോയിന്ററുകളുടെ ഈ ശ്രേണി പിന്തുടർന്ന് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് നടക്കുന്നു ഞങ്ങൾ മറ്റൊരു വഴി തിരിയുന്നതുവരെ പിന്നെ നമുക്ക് തിരിയുന്ന ഈ നോഡ് പ്രിഡിസെസാർ ആണ് ഉദാഹരണത്തിന് സബ് ട്രീ അവശേഷിക്കുന്ന ഈ മൂല്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ 5 ന് ഞങ്ങൾ ലെഫ്റ് സബ് ട്രീ ലേക്ക് ഇറങ്ങുകയും ഏറ്റവും റൈറ് മൂല്യം കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ 4 ആണ് പ്രിഡിസെസാർ 5 ന്റെ അതുപോലെ 2 ആണ് പ്രിഡിസെസാർ 3 ന്റെ 8 ആണ് 9 ന്റെ പ്രിഡിസെസാർ ഇപ്പോൾ നമുക്ക് മറ്റൊരു മൂല്യം ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് നമുക്ക് ഇടത്തേക്ക് പോകാൻ കഴിയില്ല അത് 2 ആണ് നമുക്ക് ഇടത് പോകാൻ കഴിയില്ല അത് 4 ആണ് നമുക്ക് ഇടത് പോകാൻ കഴിയില്ല ഇത് 7 ആണ് ഇടത്തേക്ക് പോകാൻ കഴിയില്ല 8 ആണ് അത് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ എന്തുചെയ്യും ഉദാഹരണത്തിന് 2 ആരംഭിച്ചു തുടർന്ന് ഞങ്ങൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അവിടെ നിന്ന് വലത്തേക്ക് തിരിയുന്നിടത്ത് കാണാം അതിനാൽ ഞങ്ങൾ ഇവിടെയെത്തി നിങ്ങൾ പോയാൽ ഒരാൾ 4 ൽ നിന്ന് ഒരു പ്രിഡിസെസാർ അനുകരിക്കുന്നു അതിനാൽ വലത്തേക്ക് പോകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം തുടർന്ന് പ്രിഡിസെസാർ കണ്ടെത്തിയാൽ ഇടത്തേക്ക് തിരിയുക അതിനാൽ ഈ മൂന്ന് നോഡുകളിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക തുടർന്ന് 8 ഞങ്ങൾ വലത്തേക്ക് പോകുകയും ഇടത്തേക്ക് തിരിയുന്നിടത്ത് പ്രിഡിസെസാർ കണ്ടെത്തുകയും ചെയ്യും അതിനാൽ പ്രിഡിസസറുടെ പ്രവർത്തനം ഇങ്ങനെയാണ് തുടർച്ചയായ പ്രവർത്തനത്തിന്റെ സിമെട്രിക്കാണ് ഇപ്പോൾ നമുക്ക് ഒരു മൂല്യം എങ്ങനെ സെർച്ച് ചെയാം എന്ന് നോക്കാം ഒരു സെർച്ച് ട്രീയിൽ വളരെ നേരായ രീതിയിൽ ഒരു മൂല്യം ചേർക്കുന്നു ഒരു സ്ഥലം മാത്രമേയുള്ളൂ കാരണം ട്രീ ക്രമത്തിൽ ലിസ്റ്റുചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ചുരുക്കിയ പട്ടിക നൽകും അതിനാൽ ഇപ്പോൾ ഈ മൂല്യം ചേർത്തതിനുശേഷം അത് രണ്ടാമതായി ഞങ്ങൾക്ക് ഒരു ചുരുക്കിയ പട്ടിക നൽകണം അതിനാൽ അവ ഒരു ചുരുക്കിയ പട്ടികയിൽ ഒരു മൂല്യം ഉൾപ്പെടുത്താനുള്ള ഒരേയൊരു സ്ഥലം മാത്രമാണെന്ന് പറയുന്നത് പോലെയാണ് അതിനാൽ ഒരു ഹ്രസ്വ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് പോലെയാണ് ട്രീയിൽ തൂക്കിയിടാൻ ശരിയായ സ്ഥലം കണ്ടെത്തേണ്ടത് ഒഴികെ ഞങ്ങൾ ഇത് ക്രമത്തിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ അത് പട്ടികപ്പെടുത്തുമ്പോൾ അത് ശരിയായ ക്രമത്തിലായിരിക്കും അടിസ്ഥാനപരമായി അത് എവിടെയാണെന്ന് സെർച്ച് ചെയുക വഴി നമ്മൾ കണ്ടെത്തണം അത് ഇല്ലെങ്കിൽ ഈ സെർച്ച് ഫീൽഡുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് ചേർക്കുന്നു അതിനാൽ നിങ്ങൾക്ക് 21 ചേർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ട്രീയിലൂടെ നടക്കുകയും 21 കണ്ടെത്തേണ്ട സ്ഥലം സെർച്ച് ചെയ്യും അതിനാൽ ഇത് 52 ൽ താഴെയാണ് ഇടത്തേക്ക് പോകുക 37 ൽ ചെറുത് ഇടത്തേക്ക് പോകുക 16 ൽ കൂടുതൽ വലുത് നമ്മൾ വലത്തേക്ക് പോകുന്നു 28 ൽ 21 ന്റെ മൂല്യം ഇല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു കാരണം ഇടത് ഇല്ല അതിനാൽ ഇത് ഇടതുവശത്ത് 28 ആയിരിക്കേണ്ടതിനാൽ ഞങ്ങൾ അത് ചേർക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് 65 ചേർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ 52 ൽ നിന്ന് വലത്തേക്ക് പോകും ഇപ്പോൾ അത് 74 ആണ് ഞങ്ങൾ ഇടത്തേക്ക് നോക്കും അവിടെ അവ ഇടത്തേക്ക് ഒന്നുമില്ല അതിനാൽ ഞങ്ങൾ ഇൻസെർട് ചെയ്യും അതിനാൽ ട്രീയുടെ ഏത് സ്ഥാനത്തും ഇത് സംഭവിക്കാം ഒരു ലീഫ് ഇതിനകം 28 ആയിരുന്നതുപോലെ ഒരു ലീഫ് നോഡിൽ ആയിരിക്കേണ്ടതില്ല അതിന് താഴെ 21 ഇൻസെർട് ചെയ്യും പക്ഷേ 74 നു റൈറ് ചൈൽഡ് ഉണ്ടായിരുന്നു എന്നാൽ ലെഫ്റ് ചൈൽഡ് കാരണം ഞങ്ങൾ ലെഫ്റ് ഇൻസെർട് ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഇതിനകം തന്നെ ഒരു മൂല്യം ചേർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞതാകാം തൽക്ഷണം 91 ഉൾപ്പെടുത്താൻ എന്റെ നിർദ്ദേശത്തിൽ അതിനാൽ ഞങ്ങൾ 91 നോക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ 91 ന്റെ ഉൾപ്പെടുത്തലിനെ ഞങ്ങൾ വ്യാഖ്യാനിക്കും അത് ശല്യപ്പെടുത്തിയില്ല കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് മൂല്യങ്ങൾ വേണ്ട എന്നാണ് അതിനാൽ നമ്മൾ ഇൻസെർട് ചെയുമ്പോൾ നമ്മൾ ഇൻസെർട് ചെയുന്ന നല്ല ഫീൽഡുകൾ വിജയം കണ്ടെത്തിയാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടെത്താൻ ശ്രമിക്കും അതിനാൽ ഇത് ചെയ്യാനുള്ള വളരെ ലളിതമായ ആവർത്തന മാർഗമാണിത് അതിനാൽ ആദ്യം നമുക്ക് ഒരു പ്രത്യേക കേസ് ഉണ്ട് അത് ട്രീ ശൂന്യമാണ് തുടർന്ന് ഞങ്ങൾ ഒരു പുതിയ നോഡ് സൃഷ്ടിച്ച് ആ നോഡിലേക്ക് പോയിന്റ് ചെയ്യും അതിനാൽ ഇത് ഒരു ഒറ്റപ്പെട്ട നോഡാണ് ഇതിന് ഒരു മൂല്യം മാത്രമേ ഉള്ളൂ v പാരന്റ്ന് ഇടതും വലതും എല്ലാം ശൂന്യമായിരിക്കും മറുവശത്ത് ഞങ്ങൾ അത് കണ്ടെത്തിയാൽ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഞങ്ങൾ അത് കണ്ടെത്തിയില്ല അതിനാൽ ഇപ്പോൾ മൂല്യങ്ങൾ ചെറുതാണെങ്കിൽ നിലവിലെ നോഡ് ഞങ്ങൾക്ക് ലെഫ്റ് ചൈൽഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇൻസെർട് ചെയ്യും നമുക്ക് ഇടത്തേക്ക് പോകേണ്ടി വന്നു എന്നാൽ ഇടത് വശത്തേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇടതുവശത്തേക്ക് ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുകയും പാരന്റ് തന്നെയാണ് ആ നോഡ് പോയിന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുന്നു അതിനാൽ t ഡോട്ട് ലെഫ്റ്റ് ഡോട്ട് പാരന്റ് t ആണ് അല്ലാത്തപക്ഷം 2 ലെഫ്റ് പോലെ ഞങ്ങൾ ആവർത്തിച്ച് ചേർക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ലെഫ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് ചേർക്കുന്നു ഞങ്ങൾക്ക് ഒരു ലെഫ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ v ഉപയോഗിച്ച് ഒരു നോഡ് സൃഷ്ടിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തൽ പ്രവർത്തനം ഞങ്ങൾ അത് പാരന്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ നമുക്ക് റൈറ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നാൽ റൈറ് ഇല്ലെങ്കിൽ ഞങ്ങൾ അത് വലതുവശത്ത് തിരുകുകയും അതിലൂടെ നമ്മളിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം ഞങ്ങൾ ആവർത്തിച്ച് വലത്തേക്ക് ചേർക്കുന്നു അതുപോലെ തന്നെ വളരെ നേരായ ഫോർവേഡ് ഫംഗ്ഷനിലേക്കുള്ള ഇൻസെർട്ടും അതിനാൽ ഞങ്ങൾ ഒരു നോഡ് എങ്ങനെ ഇല്ലാതാക്കും അതിനാൽ ഡിലീറ്റ് പറയുന്നു പക്ഷേ ട്രീയിൽ v കണ്ടെത്തുന്ന ഒരു മൂല്യം ഞങ്ങൾ നൽകി നിങ്ങൾ അടങ്ങിയ നോഡ് ഇല്ലാതാക്കണം അതിനാൽ കൈകാര്യം ചെയ്യാൻ വളരെ ലളിതമായ അടിസ്ഥാന കേസ് ഒന്നാണ് ഒരു ലീഫ് നോഡ് കാരണം നമുക്ക് അത് ഇല്ലാതാക്കാൻ കഴിയും തുടർന്ന് അത് താഴെയുള്ള ട്രീയുടെ വീഴ്ചയാണ് അതിനാൽ നിങ്ങൾക്ക് 65 ഇല്ലാതാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇടത് വലത് പാതകൾ പിന്തുടരുന്നതിനുള്ള സാധാരണ സംവിധാനത്തിലൂടെ ഞങ്ങൾ 65 കണ്ടെത്തുന്നു പിന്നെ ഇത് ഒരു ലീഫ് നോഡ് ആയതിനാൽ നമുക്ക് ഈ നോഡ് ട്രീയിൽ നിന്ന് നീക്കംചെയ്യാം ഒന്നും സംഭവിക്കുന്നില്ല അത് സാധുവായ സെർച്ച് ആയി തുടരും ഇപ്പോൾ ചിലപ്പോൾ ഇല്ലാതാക്കിയ നോഡിൽ ഒരു ചൈൽഡ് മാത്രമേ ഉണ്ടാകൂ ഉദാഹരണത്തിന് ഞങ്ങൾ 74 ഇല്ലാതാക്കുമെന്ന് കരുതുക ഞങ്ങൾ 74 ലേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ നോഡ് ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് റൈറ് ചൈൽഡ് ഉണ്ട് എന്നാൽ ഇപ്പോൾ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ ചൈൽഡ് പ്രമോട്ടുചെയ്യാൻ കഴിയും അതിനാൽ ഈ ലിങ്ക് നേരിട്ട് ഇതിലൂടെ 91 ലേക്ക് പോകുന്നുവെന്ന് നമുക്ക് ബന്ധപ്പെടാം നിങ്ങൾ അതിനിടയിലുള്ള ആ നോഡ് ഇല്ലാതാക്കുകയും ഇല്ലാതാക്കാൻ പോകുന്ന നോഡിന്റെ സക്സസാർ നേരിട്ട് 52 ബന്ധിപ്പിക്കുകയും ചെയ്യുക അതിനാൽ ഈ പ്രോബ്ലം നോക്കുമ്പോ ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ ചൈൽഡ് ഇല്ലാതാക്കുകയാണെങ്കിൽ ചൈൽഡ് 2 ഇല്ലാതാക്കി 2 ചൈൽഡ് നോഡ് ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഒരു ഡിലീറ്റ് 37 വേണമെന്നാണ് കരുതുന്നു ഞങ്ങൾ ഇപ്പോൾ 37 തിരിച്ചറിയുന്നു നമുക്ക് ഏകപക്ഷീയമായി ട്രീ പുനർനിർമ്മിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് 2 ചിൽഡ്രൻ ഉണ്ടാകും എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിനാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു തന്ത്രം അവിടെ മൊത്തത്തിൽ 37 നീക്കം ചെയ്ത് അതിനെ പ്രിഡിസെസാർ അല്ലെങ്കിൽ സക്സസാർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് അതിനാൽ പ്രിഡിസെസാർ ഉള്ള പ്രിഡിസെസാർ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് കരുതുക അതിൽ ഏറ്റവും വലിയ നോഡ് ലെഫ്റ് സബ് ട്രീ എന്നതാണ് ഇവിടെ അത് 28 ആകും അതിനാൽ ഞങ്ങൾ ചെയ്യേണ്ടത് 28 നീക്കം ചെയ്യേണ്ട ഈ നോഡിലേക്ക് ഞങ്ങൾ പകർത്തും അതിനാൽ 37 നോഡ് ഇല്ലാതാക്കില്ല അത് മൂല്യം 28 കൊണ്ട് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ട് മൂല്യം സാധുവാണ് കാരണം ഞങ്ങൾ ചുരുക്കിയ കാര്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ചുരുക്കിയ മൂല്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ഇല്ലാതാക്കുകയാണെങ്കിൽ എല്ലാം സംഭവിക്കുന്നത് പ്രിഡിസെസാർ വലതുവശത്താണ് എന്നതാണ് അതിനാൽ ഞാൻ അടിസ്ഥാനപരമായി പ്രിഡിസെസാർ ഈ ഘട്ടത്തിലേക്ക് നീക്കി അവിടെ ഈ ഘടകങ്ങൾ തമ്മിലുള്ള ക്രമം ചുരുക്കിയ ക്രമത്തിൽ സംരക്ഷിക്കുന്നു അതിനാൽ പ്രിഡിസെസാർ ഇങ്ങോട്ട് നീക്കുന്നത് അവരുടെ ഉയരത്തിലുള്ള എന്തും ഞാൻ ഉറപ്പ് നൽകുന്നു ഈ നോഡിനേക്കാൾ വലുതായി തുടരും ഇടതുവശത്തുള്ള എല്ലാം ഈ നോഡിനേക്കാൾ ചെറുതായി തുടരും കാരണം അതാണ് ഏറ്റവും വലിയ മൂല്യങ്ങൾ ഇപ്പോൾ തീർച്ചയായും എനിക്ക് 28 ൽ രണ്ട് കോപ്പികൾ ഉണ്ട് അതിനാൽ ഞാൻ ആ 28 നീക്കം ചെയ്തു അതിനാൽ ഞാൻ ഇടത് സബ് ട്രീയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ പ്രിഡിസെസാർ മൂല്യം ഞാൻ ഇല്ലാതാക്കും പക്ഷേ പ്രിഡിസെസാർ മൂല്യത്തിലെ ഏറ്റവും നല്ല കാര്യം അതാണ് ഏറ്റവും മൂല്യമുള്ളത് റൈറ് മൂല്യം എന്നതിനർത്ഥം ഒന്നുകിൽ അത് ഒരു ലീഫ് അല്ലെങ്കിൽ അതിന് ഒരു ചൈൽഡ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനാൽ ഈ രണ്ട് കേസുകളിൽ ഒന്ന് ലളിതമായ കേസിൽ ഞങ്ങൾ തിരിച്ചെത്തി അതിനാൽ ഈ രണ്ട് കേസുകളിൽ ഒന്ന് ഉപയോഗിക്കുന്നതിന്റെ പ്രിഡിസെസാർ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും ഒന്നുകിൽ ഇത് ഒരു ലീഫ് ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഈ 21 പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ 21 വലതുവശത്ത് ലഭിക്കും അതിനാൽ പൊതുവായി ഇല്ലാതാക്കുന്നത് പ്രിഡിസെസാർ നിലവിലെ മൂല്യത്തിലേക്ക് നീക്കുകയും തുടർന്ന് ലെഫ്റ് സബ് ട്രീലെ പ്രിഡിസെസാർ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു നീണ്ട കോഡാണ് കാരണം ഞങ്ങൾക്ക് നിരവധി കേസുകളായിട്ടുണ്ട് അതിനാൽ ആദ്യം നിങ്ങൾ ഒഴിഞ്ഞ ട്രീ കൊണ്ട് ഒന്നും ചെയ്യരുത് ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതാക്കാൻ കഴിയില്ല നിലവിലെ നോഡിലെ മൂല്യം മറുവശത്ത് v അല്ലെങ്കിൽ അത് കർശനമായി കുറവാണെങ്കിൽ ഇടതുവശത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇല്ലാതാക്കും അത് കർശനമായി വലുതാണെങ്കിൽ വലതുവശത്ത് എന്തെങ്കിലും ഉണ്ട് അവിടെ നിന്ന് ഇല്ലാതാക്കുക അതിനാൽ ഇവ രണ്ട് ആവർത്തന കേസുകളാണ് അതിനാൽ ഇത് കർശനമായി കുറവല്ലെങ്കിലും കർശനമായി അഭിവാദ്യം ചെയ്യുന്നില്ലെങ്കിൽ തുല്യമായിരിക്കണം ഞങ്ങൾ ചില യഥാർത്ഥ ഇല്ലാതാക്കലുകൾ നടത്തേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മൂന്ന് കേസുകളുണ്ട് അതിനാൽ ആദ്യത്തെ കേസ് യഥാർത്ഥത്തിൽ രണ്ട് കേസുകളായി പിരിയുന്നു ഇത് ഒരു ലീഫ് ആണെങ്കിൽ അത് ഒരു ലീഫ് ആകാം കാരണം ഇത് റൂട്ട് ഇത് ഒരു നോഡ് മാത്രമാണ് അതിനാൽ ഞങ്ങൾ അതിനെ അൽപ്പം വ്യത്യസ്തമായി പരിഗണിക്കും അതിനാൽ അതിന് പാരന്റ് ഇല്ലെങ്കിൽ അത് മൂലമാണെന്ന് ഞങ്ങൾ പറയും മൂല്യം ഇല്ലാതാക്കുന്നത് യഥാർത്ഥത്തിൽ ട്രീ ശൂന്യമാക്കും അതിനാൽ ശൂന്യമായ ട്രീ ശൂന്യതയിലേക്കും തിരിച്ചുവരവിനും ഞങ്ങൾ റീസെറ്റ് ചെയ്യുന്നു മറുവശത്ത് ഇത് ഒരു ലീഫ് നോഡാണെങ്കിൽ അതിന് കു ചൈൽഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് പാരന്റ് മൂല്യം ശൂന്യമായി നിശ്ചയിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇത് ലീഫ് നോഡ് ആണെന്ന് കരുതുക ഞാൻ ഇത് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ നോക്കുന്നു തുടർന്ന് ഞാൻ അടിസ്ഥാനപരമായി ഈ പോയിന്റിന്റെ റൈറ് പോയിന്റർ പറഞ്ഞു ഇത് ഈ ലിങ്കിന്റെ എസെൻഷ്യൽ ആണെന്ന് റൈറ് പോയിന്ററുകൾ ഇല്ലെന്ന് പറയുന്നു അതിനാൽ കറന്റ് നോഡ് അതിന്റെ പാരന്റ് ലെഫ്റ് ചൈൽഡ് ആണെങ്കിൽ ലെഫ്റ് ചൈൽഡ് പാരന്റ്നൊപ്പം ശൂന്യമാണ് അതിനാൽ തീർച്ചയായും ഇത് ചില ഗാർബേജ് സൃഷ്ടിക്കുന്നു കാരണം ഈ നോഡ് ഇപ്പോൾ ആക്സസ് ചെയ്യാവുന്നതും ട്രീയിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതുമാണ് പക്ഷേ ഇത് വീണ്ടെടുക്കണമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റോറിലേക്ക് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഗാർബേജ് ശേഖരണമുള്ള മറ്റൊരു ഭാഷയിൽ ഇത് സ്വയമേവ പുനസ്ഥാപിക്കപ്പെടുകയും ഗാർബേജ് ശേഖരണം ഏറ്റെടുക്കുകയും ചെയ്യും എന്നാൽ കാര്യം ഞങ്ങൾ അത് പുനസജ്ജീകരിക്കുന്നതിലൂടെ നീക്കംചെയ്യുന്നത് പാരന്റ് ആണ് അതിനാൽ ഇത് ലീഫ് കേസ് ആണ് ലീഫ് കേസ് പരിഗണിച്ച ശേഷം ഒരു ചൈൽഡ് മാത്രമുള്ള ഒരു നോഡ് ഞാൻ ഇല്ലാതാക്കുമോ എന്ന് ഇപ്പോൾ നമുക്ക് പരിഗണിക്കാം അതിനാൽ ലെഫ്റ് സബ് ട്രീ മാത്രമുള്ള ഒരു നോഡ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഇത് നോക്കും അതിനാൽ ലെഫ്റ് ശൂന്യമല്ല റൈറ് ശൂന്യമാണ് അതിനാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ അനുകരിച്ച ലെഫ്റ് സക്സസാർ നോക്കുക എന്നതാണ് അതിനാൽ ഇതിന് എവിടെയെങ്കിലും ഒരു പാരന്റ് ഉണ്ട് അതിനാൽ ആദ്യം ഈ ലെഫ്റ് ചൈൽഡ് നേരിട്ട് പാരന്റിനെ ചൂണ്ടിക്കാണിക്കുക അതിനാൽ t ഡോട്ട് ലെഫ്റ്റ് ഡോട്ട് പാരന്റ് t ഡോട്ട് പാരന്റ് ആണ് അപ്പോൾ ഞങ്ങൾ നോക്കുന്നു ഇത് ലെഫ്റ് പാരന്റ് ആണോ അതോ ലെഫ്റ് ചൈൽഡ് ആണോ റൈറ് ചൈൽഡ് ആണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനാൽ ഞങ്ങളുടെ കൈവശമുള്ള നോഡ് അതിന്റെ ഇടതുവശത്ത് ഇരിക്കുകയാണെന്ന് കരുതുക പാരന്റ് t ഡോട്ട് പാരന്റ് ലെഫ്റ് t ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ കാര്യം നേരിട്ട് പറയുക എന്നതാണ് ഇപ്പോൾ മറുവശത്ത് ഇത് ഇങ്ങനെയല്ലെങ്കിൽ ഇത് മറ്റൊരു വഴിയായിരുന്നു അതിനാൽ ഇത് ഏത് പാരന്റിന്റെ റൈറ് ചൈൽഡ് ആണ് അപ്പോൾ റൈറ് ചൈൽഡ് നേരിട്ട് ചൂണ്ടിക്കാണിക്കരുത് പാരന്റിന്റെ റൈറ് ചൈൽഡ് ഇപ്പോൾ എന്റേതാണ് ലെഫ്റ് ചൈൽഡ് അതിനാൽ ഈ കാര്യം നീക്കംചെയ്യാനും ഈ ചൈൽഡ് നീക്കം ചെയ്യാനും അവരുടെ ഒരേയൊരു ചൈൽഡ് പ്രോത്സാഹിപ്പിക്കാനുമുള്ള വഴി ഇതാണ് റൈറ് ചൈൽഡ് മാത്രമാണെങ്കിൽ ഞങ്ങൾ ഒരു സിമെട്രിക്കലി ആണ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം റൈറ് ചൈൽഡ് എടുക്കുന്നു തുടർന്ന് ഞങ്ങൾ നിങ്ങളുടെ പാരന്റ് ആകും അതിനുശേഷം കേസിനെ ആശ്രയിച്ച് ഞങ്ങൾ ഒന്നുകിൽ ഈ രീതിയിൽ ഈ ഘട്ടത്തിൽ ഇത് ഉണ്ടാക്കുന്നു അതിനാൽ ഒന്നുകിൽ ലെഫ്റ് ടി ഡോട്ട് പാരന്റ് ടി ഡോട്ട് റൈറ്റ് ആണ് ടി ഡോട്ട് പാരന്റ് റൈറ് t ഡോട്ട് ലെഫ്റ് ആണ് അതിനാൽ എനിക്ക് ഒരു ചൈൽഡ് മാത്രമേയുള്ളൂ എങ്കിൽ ഫലപ്രദമായി ട്രീയിൽ നിന്ന് നോഡ് നീക്കം ചെയ്യുക അവസാനമായി നമുക്ക് രണ്ട് ചിൽഡ്രൻ ഒരു നോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് v ൽ പ്രിഡിസെസാർ ആദ്യം കണക്കുകൂട്ടുകയാണെങ്കിൽ നിലവിലെ നോഡുകളുടെ മൂല്യം പ്രിഡിസെസാർ മൂല്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഈ മൂല്യം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾ ലെഫ്റ് ചൈൽഡ് ലേക്ക് പോയി ഡിലീറ്റ് ചെയ്തു ഞങ്ങൾ ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ് ചൈൽഡ് നമുക്ക് അറിയാവുന്നത് പരമാവധി മൂല്യമാണ് ഇല്ലാതാക്കുന്നത് എന്ന് ഓർക്കുന്നു അതിനാൽ അതിന് ഒന്നുകിൽ ചിൽഡ്രൻ ഇല്ല അത് ഒരു ലീഫ് ആയിരിക്കും അല്ലെങ്കിൽ ഒരൊറ്റ ചൈൽഡ് അതിനാൽ ഇത് ഈ കേസിലേക്ക് തിരികെ വരില്ല മുമ്പത്തെ രണ്ട് കേസുകളിൽ ഇത് നിർത്തുകയും അത് വിജയകരമായി ഇല്ലാതാക്കുകയും ചെയ്യും അതിനാൽ ഒരു പ്രശ്നവുമില്ല അത് വീണ്ടും ഇല്ലാതാക്കുക എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് വിവരിക്കേണ്ട ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ ഒരൊറ്റ പാതയിലൂടെ നടക്കുന്നു അതിനാൽ ഈ പ്രവർത്തനങ്ങളിൽ ഒന്നിനേക്കാളും ഏറ്റവും മോശം അവസ്ഥ സങ്കീർണ്ണമായ നിലവിലെ ട്രീയുടെ ഉയരമാണ് നമ്മൾ കണ്ട ഒരു ചൂട് പോലെയുള്ള ഒരു ബാലൻസ് ട്രീ നമുക്ക് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വശങ്ങളിൽ ഉയരം ലോഗരിത്തമിക് ആണ് അതിനാൽ ഞങ്ങൾക്ക് n നോഡുകൾ ഉണ്ട് ഉയരം ഓർഡർ ലോഗ് n ആണ് അതിനാൽ സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്താമെന്ന് അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങൾ കാണും പക്ഷേ ഞങ്ങൾ നേടിയതിൽ വിജയിച്ചു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുവെന്ന് കരുതുക ഈ 7 പ്രവർത്തനങ്ങളും ഒരേസമയം കാര്യക്ഷമമായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എല്ലാം ലോഗ് എൻ ടൈം കാരണം അവ ഓരോന്നും ഒരു ട്രവേര്സല്ലിൽ ട്രീയിൽ ഒരു പാതയിലൂടെ മുകളിലേക്കോ താഴേയ്ക്കോ നേടാനാകും